മുമ്പ് നമ്മൾ റിയൽ ടൈം ടാസ്ക് ഷെഡ്യൂളർ റേറ്റ് മോണോടോണിക് അൽഗോരിതം അല്ലെങ്കിൽ RMAയുടെ ഒരു പ്രധാന വിഭാഗം ചർച്ചചെയ്തു അതിന്റെ അൽഗോരിതം ലളിതമാണ് ടാസ്ക് സെറ്റിലുള്ള ടാസ്ക്കുകൾക്ക് ഡിസൈനർ സ്റ്റാറ്റിക് പ്രിയോറിറ്റി നൽകുന്നു അൽഗോരിതം അല്ലെങ്കിൽ പ്രിയോറിറ്റി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതികതയാണ് ഉയർന്ന നിരക്കിലുള്ള ടാസ്ക്കുകൾക്ക് ഉയർന്ന പ്രിയോറിറ്റി നൽകുന്നത് കുറഞ്ഞ പീരിയഡ്ലുള്ളവർക്ക് ഉയർന്ന പ്രിയോറിറ്റി നൽകുന്നു ഈ ഉയർന്ന പ്രിയോറിറ്റി ചുമതലകൾ സ്റ്റാറ്റിക് പ്രിയോറിറ്റി ഷെഡ്യൂളറിന്റെ സഹായത്തോടെ അവരുടെ പ്രിയോറിറ്റി നിലനിർത്തുന്നു ഡിസൈനർ ഒരിക്കൽ ഒരു ടാസ്ക്കിന് പ്രിയോറിറ്റി നൽകിയാൽ അത് മാറില്ല തുടർന്ന് പ്രിയോറിറ്റി കുറഞ്ഞ ടാസ്ക്കുകൾ ഉണ്ടെങ്കിലും ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക് എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നു കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ടാസ്ക്കുകൾ മുൻകൂട്ടി തയ്യാറാക്കിയതാണ് അല്ലെങ്കിൽ ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക് പൂർത്തിയാകുന്നതുവരെ അവ കാത്തിരിക്കുന്നു ഒരു ടാസ്ക് സെറ്റ് നൽകുന്നത് ഒരു പ്രധാന പരിഗണനയാണ് സജ്ജീകരിച്ച ടാസ്ക്കുകൾ ഷെഡ്യൂളറിന് പ്രായോഗികമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുമോയെന്ന് പരിശോധിക്കുക കൂടാതെ ചില യൂട്ടിലൈസഷൻ ബൌണ്ടസ് ഉപയോഗിച്ച് നമ്മൾ ഇത് പരിശോധിക്കുകയും ചെയ്തു ആദ്യത്തെത് അടിസ്ഥാനപരമായ ഒന്നു ആണ് ഇവിടെ ടാസ്കിന്റെ യൂട്ടിലൈസഷൻ ബൌണ്ട് 1നു മീതെ പോകാൻ പാടില്ല ഒരു യൂണിപ്രോസസ്സർ റൺ ചെയുനത്തിനായി അല്ലെകിൽ ∑i1 to nei pi1 ഇത് അത്യാവശ്യമായ നിബന്ധന ആണ് എന്നാൽ പൂർണമായ ഒരു നിബന്ധന അല്ല പിന്നീട് നമ്മൾ ലിയു ലെയ്ലാൻഡ് എക്സ്പ്രഷൻ നൽകുന്ന പൂർണമായ നിബന്ധനയിലേക്കു ആണ് നോക്കുന്നത് n12n 1 ഇവിടെ n ഷ്ഡ്യൂൾ ചെയ്യണ്ട ടാസ്കുകളുടെ എണം ആണ് അതു യൂട്ടിലൈസഷൻ ബൌണ്ട് നൽകുന്നു N ടാസ്കുകൾ ഉള്ള ടാസ്ക് സെറ്റിന്റെ യൂട്ടിലൈസഷൻ ബൌണ്ട് n12n 1 ആയിരിക്കുവോളം ടാസ്ക് സെറ്റ് റേറ്റ് മോനോടോണിക് അൽഗോരിതം ഉപയോഗിച്ച് ഫീസിബിൽ ആയി റൺ ചെയാം ഉദാഹരണത്തിന് നമുക്ക് 2 ടാസ്ക്കുകളും ഉണ്ട് എക്സിക്യൂഷൻ സമയവും ei ഉം pi ഉം ഉണ്ട് നമ്മൾ അനുമാനിക്കുന്നു അതായതു pi ¿dii ഡെഡ്ലൈൻ പീരിയഡ്നു തുല്യമാണ് ടാസ്ക് 1 എക്സിക്യൂഷൻ സമയം 2ഉം പിരീഡ് 4ഉം ടാസ്ക് 2 എക്സിക്യൂഷൻ സമയം 1ഉം പിരീഡ് 8ഉം എന്നിങ്ങനെ 2 ടാസ്ക്കുകൾ ഉണ്ട് റേറ്റ് മോണോടോണിക് അൽഗോരിതം പ്രകാരം ഒരു യൂണിപ്രൊസസ്സറിൽ ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ ലിയു ലെയ്ലാൻഡ് മാനദണ്ഡം ഉപയോഗിക്കുമോയെന്ന് പരിശോധികാം ലിയു ലെയ്ലാൻഡ് മാനദണ്ഡത്തിന് ആദ്യം 2 ടാസ്ക്കുകളുടെ യൂട്ടിലൈസഷൻ ഡ്യൂ കണക്കാക്കേണ്ടതുണ്ട് ആദ്യ ടാസ്കിനു എല്ലാ 4 യൂണിറ്റിലും 2 യൂണിറ്റ് എക്സിക്യൂഷൻ ടൈം വേണം യൂട്ടിലൈസഷൻ 2 4 ആണ് രണ്ടാമത്തെ ടാസ്കിനു എല്ലാ 8യൂണിറ്റിനും 1 യൂണിറ്റ് എക്സിക്യൂഷൻ ടൈംഉം വേണം യൂട്ടിലൈസഷൻ 1 8 ആണ് അതോടൊപ്പം ഇത് സിംപ്ലിഫയ് ചെയുമ്പോൾ നമുക്ക് 0 625 എന്നു കിട്ടും അതോടൊപ്പം നമ്മൾ ലിയു ആൻഡ് ലെയ്ലാൻഡ് ബൌണ്ട് കമ്പ്യൂട് ചെയുന്നു കാരണം 2 ടാസ്ക് ഉണ്ടെങ്കിൽ n12n 1 2122 10 82ഉം 0 82 ആണ് അതുകൊണ്ട് ടാസ്ക് സെറ്റ് ഒരു യൂനിപ്രോസെസ്സറിനു കീഴിൽ റേറ്റ് മോനോടോണിക് അൽഗോരിതം ഉപയോഗിച്ച് ഫീസിബിൽ ആയി പ്രവർത്തിക്കാം ടാസ്ക് സെറ്റ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പ്ലോട്ട് ചെയ്യുക ഈ രണ്ട് ടാസ്കുകളും ടൈം 0 എത്തിച്ചേരുന്നു എന്നു കരുതുക അതായത് അവരുടെ ഫേസിംഗ് 0 ആണ് എല്ലാവരും ടൈം 0 ന് തയ്യാറാകുന്നു പക്ഷേ ടാസ്ക് T1 ന് ടാസ്ക് T2 യേക്കാൾ ഉയർന്ന പ്രിയോറിറ്റിയുണ്ട് കാരണം ഇതിന് സോഫ്റ്റർ പീരിയഡ് ആണ് അതിനാൽ ഷെഡ്യൂളിംഗിനായി T1 ആദ്യം ഏറ്റെടുക്കണം T1 ന്ടെ ആദ്യ ഇൻസ്റ്റൻസ് റൺ ചെയുന്നു അതു പൂർത്തിയാകാൻ 2 യൂണിറ്റ് സമയമെടുക്കും അതുവരെ T2 ന്റെ ആദ്യ ഇൻസ്റ്റൻസ് കാത്തിരിക്കുന്നു ഈ ഘട്ടത്തിൽ T 2 ഇൻസ്റ്റൻസ് പ്രവർത്തിക്കാൻ ആരംഭിക്കുക T2 ന് 1 യൂണിറ്റ് സമയം മാത്രമേ ആവശ്യമുള്ളൂ ഇത് 3ഇൽ പൂർത്തിയാകുനു 4 ന് T1 ന്റെ രണ്ടാമത്തെ ഇൻസ്റ്റൻസ് എത്തുന്നു പിന്നെ അതു 6 വരെ പ്രവർത്തിക്കുന്നു എന്നിട്ട് T2 ന്റെ അടുത്ത ഇൻസ്റ്റൻസ് 8 ൽ എത്തി അത് തുടരുന്നു ടാസ്ക്കുകൾ അവരുടെ വരവിനനുസരിച്ച് പ്ലോട്ട് ചെയ്യുമ്പോഴും അവരുടെ പ്രിയോറിറ്റി അടിസ്ഥാനമാക്കി ഏത് ടാസ്ക് പ്രവർത്തിപ്പിക്കുമെന്നും നിരീക്ഷിക്കാൻ കഴിയും ലിയു ലെയ്ലാൻഡ് എക്സ്പ്രഷൻ നൽകിയ രണ്ട് ടാസ്കുകളും അതാത് ഡെഡ്ലൈൻ പാലിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ ഇതു 2 42 ടാസ്ക്സ് ആണ് അതായത് ആദ്യത്തെ ടാസ്ക് എല്ലാ 4 യൂണിറ്റും 2യൂണിറ്റ് എക്സ്സിക്യൂഷ്ൻ എടുക്കും പക്ഷെ ഇപ്പോൾ നമുക്ക് ടാസ്ക് 2 ഉണ്ട് അതു എല്ലാ 8 യൂണിറ്റിലും 4 യൂണിറ്റ് എക്സ്സിക്യൂഷ്ൻ ടൈം എടുക്കും ആദ്യ ടാസ്കിന്റെ യൂട്ടിലൈസഷൻ ഡ്യൂ 0 5ആണ് അതിന്ടെ ഒപ്പം രണ്ടാമത്തെ ടാസ്കിന്റെയും 0 5 ആണ് അതുകൊണ്ട് അതിന്ടെ മൊത്തം സമയം 1 ആണ് പക്ഷെ ലിയു ലെയ്ലാൻഡ് ബൌണ്ട് 0 ലിയു ലെയ്ലാൻഡ് എക്സ്പ്രഷ്ൻ പ്രകാരം ഈ ടാസ്ക് സെറ്റ് ഷ്ഡ്യൂളബിൽ അല്ല ഇത് പരിശോധിക്കുന്നതിന് ആദ്യം T1 പ്രവർത്തിക്കും കാരണം അതിന് 2 യൂണിറ്റുകൾക്ക് ഉയർന്ന പ്രിയോറിറ്റി റൺ ഉണ്ട് തുടർന്ന് T2 പൂർത്തിയാകുമ്പോൾ അത് 4 യൂണിറ്റുകൾ എടുക്കും പക്ഷേ അത് 2 യൂണിറ്റുകൾക്ക് റൺ ചെയ്തു കഴിഞ്ഞാൽ T1 ന്റെ രണ്ടാമത്തെ ഇൻസ്റ്റൻസ് എത്തിച്ചേരും T2 പ്രീ എംപ്റ്റ് ചെയ്ത് 4 മുതൽ 6 വരെ പ്രവർത്തിക്കാൻ തുടങ്ങും T1 ന്റെ ഇൻസ്റ്റൻസ് 6 ന് പൂർത്തിയാകുമ്പോൾ പ്രീ എംപ്റ്റഡ് T2 പ്രവർത്തിക്കാൻ തുടങ്ങും പക്ഷേ 8 ന് അത് പൂർത്തിയായി T1 ന്റെ പുതിയ ഇൻസ്റ്റൻസ് എത്തും പക്ഷേ രണ്ടും T1ഉം T2ഉം അവരുടെ ഡെഡ്ലൈൻ പാലിച്ചു നമ്മൾ ഈ ഷെഡ്യൂൾ വളരെക്കാലം വരച്ചാലും രണ്ടും നിരീക്ഷിക്കപ്പെടുന്നു T1 T2 എന്നിവ അവരുടെ ഡെഡ്ലൈൻ പാലിക്കുന്നു പക്ഷേ ലിയു ലെയ്ലാൻഡ് മാനദണ്ഡം സൂചിപ്പിക്കുന്നത് സെറ്റ് ചെയ്ത ടാസ്കുകൾ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയില്ല എന്നാണ് ലിയു ലെയ്ലാൻഡ് മാനദണ്ഡം യഥാർത്ഥത്തിൽ ഒരു അശുഭാപ്തി മാനദണ്ഡമാണെന്ന് ഇവിടെ നിഗമനം ചെയ്യാം ഒരു അർത്ഥത്തിൽ ഒരു ടാസ്ക് സെറ്റ് മാനദണ്ഡം പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഷെഡ്യൂൾ ചെയ്യപ്പെടും എന്നാൽ ചില ഇൻസ്റ്റൻസ്സ് ഉദാഹരണത്തിന് ടാസ്ക് സെറ്റ് ലിയു ലെയ്ലാൻഡ് ബൌണ്ട് പാലിക്കുന്നില്ലെങ്കിലും അത് ഫീസിബിൽ ആയി ഷ്ഡ്യൂൽ ചെയാം ലിയു ലെഹോസ്കി എന്നിവരും 1986 ലും 1987 ലും അന്വേഷിച്ച ഈ വിഭാഗത്തിന്റെ ഫലങ്ങൾ ഞങ്ങൾ കൂടുതൽ തെളിയിക്കും ലിയു ലെയ്ലാൻഡ് മാനദണ്ഡം പരാജയപ്പെടുന്ന ഒരു ടാസ്ക് സെറ്റിന് ഇപ്പോഴും അതിന്റെ ഡെഡ്ലൈൻ പാലിക്കാൻ കഴിയുമോയെന്ന് പരിശോധിക്കാൻ അവർ ലിയു ലെഹോസ്കി മാനദണ്ഡം എന്നറിയപ്പെടുന്ന ഒരു പുതിയ മാനദണ്ഡം കൊണ്ടുവന്നു ലിയു ലെയ്ലാൻഡ് മാനദണ്ഡം പാലിക്കാത്ത ഒരു ടാസ്ക് സെറ്റ് എന്നിരുന്നാലും ടാസ്ക് സെറ്റ് ഫീസിബിൽ ആയി ഷ്ഡ്യൂൽ ചെയാം ഉദാഹരണത്തിന് നമുക്ക് T1 T2 T3 എന്നീ 3 ടാസ്കുകൾ ഉണ്ട് ആദ്യ ടാസ്ക് ഓരോ 4 യൂണിറ്റിനും 1 യൂണിറ്റ് എക്സിക്യൂഷൻ എടുക്കുന്നു രണ്ടാമത്തെ ടാസ്ക്കിന് ഓരോ 6 യൂണിറ്റിനും 2 യൂണിറ്റ് എക്സിക്യൂഷൻ ആവശ്യമാണ് മൂന്നാമത്തെ ടാസ്ക്കിന് ഓരോ 20 യൂണിറ്റ് സമയത്തും 3 യൂണിറ്റ് എക്സിക്യൂഷൻ ആവശ്യമാണ് കൂടാതെ RMA ക് കീഴിൽ ടാസ്ക് ഫീസിബിൽ ആയി ഷ്ഡ്യൂൽ ചെയാൻ സാധ്യമാക്കാം ഇതു ചെയാൻ ആദ്യം നമ്മൾ അടിസ്ഥാന ക്രൈറ്റീരിയൻ പരിശോധിക്കണം അതായത് 3 ടാസ്ക് സെറ്റുകളുടെയും യൂട്ടിലൈസഷൻ 1നു താഴെ ആണോ അങ്ങനെയെങ്കിൽ ഈ 3 ടാസ്കുകൾക്കും നമുക്ക് ലിയു ലെയ്ലാൻഡ് ക്രൈറ്റീരിയൻ പരിശോധികാം നമ്മൾ പിന്നെ ലിയു ലെയ്ലാൻഡ് പ്രൊപ്പോസ് ചെയ്ത യൂട്ടിലൈസഷൻ ബൌണ്ട് കണക്കു കൂട്ടണം അതു 3123 1 ആണ് അതിനു ശേഷം യൂട്ടിലൈസഷൻ ബൌണ്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെകിൽ ബൌണ്ടിനു താഴെ ആണോ എന്നു നമ്മൾ പരിശോദിക്കുന്നു 1 നമ്മൾ ഇപ്പോൾ 3 ടാസ്കുകളുടേം യൂട്ടിലൈസഷൻ കണക്കു കൂടുക ആണെകിൽ അതു 4060 4460 അല്ലെകിൽ 1115 ആണ് ഇത് യൂട്ടിലൈസഷൻഡ് അടിസ്ഥാന ക്രൈറ്റീരിയൻ മീറ്റ് ചെയുന്നു ∑ui≤1 പക്ഷെ നമുക്ക് ലിയു ആൻഡ് ലെയ്ലാൻഡ് ക്രൈറ്റീരിയൻ കൂടി നോക്കാം ഇവിടെ നമ്മൾ 3ഇൽ ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റുത് ചെയുന്നു അപ്പോൾ 3123 10 778 അതോടൊപ്പം ലളിതമാകുമ്പോൾ 11150 7330 778 ആണ് അതുകൊണ്ട് ലിയു ആൻഡ് ലെയ്ലാൻഡ് ക്രൈറ്റീരിയൻ 3 ടാസ്കുകൾക്കും ഒരു റേറ്റ് മോനോടോണിക് ഷ്ഡ്യൂളറിൽ ഫീസിബിൽ ആയി ഷ്ഡ്യൂൽ ചെയാം ഇനിപ്പറയുന്ന കാരണങ്ങളാൽ EDF RMA എന്നിവ യഥാർത്ഥത്തിൽ വ്യത്യസ്ത തരം ഷെഡ്യൂളറുകളാണ് EDF ൽ ഏത് സമയത്തും ഷെഡ്യൂളർ തയ്യാറായ ടാസ്ക് പരിശോധിക്കുകയും ഏറ്റവും കുറഞ്ഞ ഡെഡ്ലൈൻ ഉള്ളത് ഏതെന്ന് കണ്ടെത്തുകയും അത് നടപ്പിലാക്കുന്നതിനായി അയയ്ക്കുകയും ചെയ്യുന്നു മറുവശത്ത് RMAയിൽ ടാസ്ക്കുകളുടെ അറൈവൽ റേറ്റ് അല്ലെങ്കിൽ ടാസ്ക് പീരിയഡ് അടിസ്ഥാനമാക്കി നമ്മൾ സ്റ്റാറ്റിക് പ്രിയോറിറ്റി നൽകുന്നു ഏതെങ്കിലും അനിയന്ത്രിതമായ ടാസ്ക് സെറ്റിനായി നമ്മൾ ടാസ്ക് എക്സിക്യൂഷനുകൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 2 ടാസ്ക്കുകൾ 3 ടാസ്ക്കുകൾ അല്ലെങ്കിൽ 4 ടാസ്ക്കുകൾ ആകാം തുടർന്ന് EDFഫും RMAയും തയ്യാറാക്കിയ ഷെഡ്യൂൾ പരിശോധിക്കുക അത് പൊരുത്തപ്പെടും അവ പൊരുത്തപ്പെടുത്തുമ്പോൾ അവ യഥാർത്ഥത്തിൽ സമാനമാണെന്ന് കണ്ടെത്തി വ്യത്യസ്ത ഷെഡ്യൂളുകൾ നിർമ്മിക്കുന്നിടത്ത് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ് ഇനി പ്പറയുന്നവ EDF ന് നമുക്ക് ആവശ്യമായ യൂട്ടിലൈസഷൻ 100 ആണ് RMAക്ക് ഇത് ഫീസിബിൽ ആയ ഒരു ഷെഡ്യൂൾ ഉൽപാദിപ്പിക്കും ഷെഡ്യൂൾ യൂട്ടിലൈസഷൻ ബൌണ്ടിനേക്കാൾ കുറവാണെങ്കിൽ ഫീസിബിൽ ആയ ഒരു ഷെഡ്യൂൾ സൃഷ്ടിക്കാൻ കഴിയില്ല EDFൽ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നതും എന്നാൽ RMAൽ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയാത്തതുമായ അനിയന്ത്രിതമായ ടാസ്ക് സെറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഷെഡ്യൂൾ വ്യത്യസ്തമായിരിക്കും RMAയ്ക്ക് കീഴിൽ ഷെഡ്യൂൾ ചെയ്യാനാകാത്ത ഒരു കൂട്ടം ടാസ്കുകൾ നമ്മൾ പരിഗണിക്കുന്നു പക്ഷേ ഇതു EDFൽ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും തുടർന്ന് വ്യത്യസ്ത ഷെഡ്യൂളുകൾ നിർമ്മിക്കുന്ന 2 ഷെഡ്യൂളറുകൾ കണ്ടെത്താനാകും നിസ്സാരമല്ലാത്ത ഒരു ഉദാഹരണം ഒരു ടാസ്ക് സെറ്റ് ആകാം അതിൽ ടാസ്ക് പൂർത്തിയാകുന്നതിന് മുമ്പായി അതു പ്രീ എംപ്ട് ചെയപെടുന്നു ഉദാഹരണത്തിന് നമുക്ക് 2 ടാസ്ക്കുകൾ ഉണ്ട് അതിൽ ഒരു ടാസ്ക്ന്ടെ എക്സിക്യൂഷൻ ടൈംഉം പീരിയഡ്ഉം 3 8 ഉം മറ്റൊരു ടാസ്ക്ന്ടെ എക്സിക്യൂഷൻ ടൈംഉം പീരിയഡ്ഉം 6 12 എന്നിങ്ങനെയാണ് റേറ്റ് മോണോടോണിക് അൽഗോരിതത്തിൽ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഷ്ഡ്യൂൽ T1 ആണ് അത് പ്രവർത്തിക്കും കാരണം അതിനു T2നേക്കാൾ ഉയർന്ന പ്രിയോറിറ്റി ഉണ്ട് അതായത് അതു 3ഇൽ തീരും T2 8 വരെ പ്രവർത്തിക്കും തുടർന്ന് T1 പ്രവർത്തിപ്പിക്കാൻ ആരംഭിക്കുക കാരണം T1 ന്ടെ അടുത്ത ഇൻസ്റ്റൻസ് വരും മറുവശത്ത് EDF ൽ T1 3 വരെയും T2 9 വരെയും പ്രവർത്തികുനു പിന്നീട് T1 പ്രവർത്തിക്കും കാരണം ഈ ഘട്ടത്തിൽ T1 8 ൽ പ്രവർത്തിക്കുമ്പോഴും T1 ടാസ്ക് 8 ൽ എത്തുമ്പോഴും എന്നാൽ അപ്പോഴേക്കും T2ന്ടെ ഡെഡ്ലൈൻ അടുത്ത് എത്തുന്നു അതിന്ടെ ഡെഡ്ലൈൻ 12 ആണ് അതേസമയം T1 ന്റെ ഡെഡ്ലൈൻ 16 ആണ് കാരണം അത് 8 ൽ എത്തി അതിനാൽ T2 9 വരെ പ്രവർത്തിക്കും തുടർന്ന് T1 ന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ നമ്മൾ ടാസ്ക്കുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ലിയുവിന്റെയും ലെയ്ലാൻഡിന്റെയും കൺഡിഷ്ൻ യഥാർത്ഥത്തിൽ പെസിമിസ്റ്റിക് കൺഡിഷ്ൻ ആണെന് ഇതിനകം ഉദാഹരണങ്ങളിലൂടെ കണ്ടു ഇത് 69 ആയി തീരുന്നു ഒരു ടാസ്ക് സെറ്റ് ഇത് പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഷെഡ്യൂൾ ചെയ്യപ്പെടും എന്നാൽ അത് ലിയു ലെയ്ലാൻഡ് കൺഡിഷ്ൻ പരാജയപ്പെട്ടാലും അത് ഷെഡ്യൂൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു അവസരമുണ്ട് അതിനാൽ ലിയുവും ലെഹോസ്കിയും നൽകിയ കംപ്ലീഷൻ ടൈം സിദ്ധാന്തം എന്ന് വിളിക്കുന്ന മറ്റൊരു ഫലം നമ്മൾ കാണുന്നു അവിടെ ലിയു ലെയ്ലാൻഡ് കൺഡിഷ്ൻ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും സജ്ജീകരിച്ച ടാസ്ക്കുകൾ അതിന്റെ ഡെഡ്ലൈൻ പാലിക്കുമോയെന്ന് പരിശോധിക്കാൻ കഴിയും ഉദാഹരണത്തിന് വ്യത്യസ്ത എക്സിക്യൂഷൻ ടൈംഉം ഡെഡ്ലൈനിനുമുള്ള 3 ടാസ്ക്കുകൾ ഇവിടെയുണ്ട് ലിയു ലെയ്ലാൻഡ് ഫലം പരിശോധിക്കേണ്ടതുണ്ട് അവിടെ യൂട്ടിലൈസഷൻ 0 753 ആണെന്നും ബൌണ്ട് 0 779 ആണെന്നും അതിനാൽ ടാസ്ക്കുകൾ ഷെഡ്യൂൾ ചെയ്യാനാകുമെന്നും നമ്മൾ കണ്ടെത്തി ചുവടെ ഒരു പ്രശ്നവും അതിന്റെ ഉത്തരവും ഉണ്ട് ഈ പ്രഭാഷണത്തിൽ നമ്മൾ ആദ്യം നോക്കിയത് അടിസ്ഥാന അൽഗോരിതം ആൻഡ് റേറ്റ് മോണോടോണിക് അൽഗോരിതം ആണ് പ്രോഗ്രാമർക്ക് കുറഞ്ഞ പീരിയഡ്ലുള്ള ടാസ്ക്കുകൾക്ക് ഉയർന്ന പ്രിയോറിറ്റികൾ നൽകേണ്ടതുണ്ട് അദ്ദേഹം അത് ചെയ്തുകഴിഞ്ഞാൽ ഷെഡ്യൂളർ ടാസ്ക്കുകൾ പ്രവർത്തിപ്പിക്കും പക്ഷേ നമ്മൾ അറിയേണ്ടതുണ്ട് അവ തൃപ്തികരമായി ഓടുമോ എന്നത് അതിനായി നമ്മൾ ചില ബൌണ്ടുകൾ ചർച്ച ചെയ്യുകയായിരുന്നു ആദ്യത്തേത് യൂട്ടിലൈസഷൻ ബൌണ്ട് 1 യൂട്ടിലൈസഷൻ സമ് 1 ൽ കുറവായിരിക്കണം രണ്ടാമത്തെ ബൌണ്ട് ലിയു ലെയ്ലാൻഡ് ബൌണ്ട് n 2n−1 നൽകിയതാണ് തന്നിരിക്കുന്ന ടാസ്ക് സെറ്റിന് u2 ബൌണ്ട് സാധാരണ e1 നേക്കാൾ കുറവാണ് എന്നാൽ ടാസ്ക് സെറ്റിൽ 1 ടാസ്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ u1 u2 ന് തുല്യമാണ് u2 യൂട്ടിലൈസഷൻ 70ഇൽ സ്റ്റെബിലൈസ് ആകുന്നു ഒരു ടാസ്ക് സെറ്റിനുള്ള യൂട്ടിലൈസഷൻ 70 ൽ കുറവാണെങ്കിൽ അത് തീർച്ചയായും ഷെഡ്യൂൾ ചെയ്യാനാകും എന്നാൽ നമ്മൾ ചില ഉദാഹരണങ്ങൾ ചർച്ചചെയ്തു ലിയു ലെയ്ലാൻഡ് യഥാർത്ഥത്തിൽ പെസിമിസ്റ്റിക് ഫലമാണെന്ന് കണ്ടെത്തി ഒരു ടാസ്ക് സെറ്റ് അതിന്റെ ഡെഡ്ലൈൻ പാലിക്കുമെങ്കിലും അത് ലിയു ലെയ്ലാൻഡ് അവസ്ഥയെ ലംഘിച്ചേക്കാം നമ്മൾ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് അതാണ് ഷെഡ്യൂളബിലിറ്റി ചെക്ക് 3 ഇത് 1989 ൽ ലിയുവും ലെഹോസ്കിയും നൽകിയ കംപ്ലീഷൻ ടൈം സിദ്ധാന്തമാണ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒരു ടാസ്ക് സെറ്റ് ലിയു ലെയ്ലാൻഡിനെ പരാജയപെട്ടാലും ചിലപ്പോ ഷെഡ്യൂൾ ചെയ്യാനാകും 1 1 നമുക്ക് ടെസ്റ്റ് 3 നോക്കാം അതായത് ഒരു ടാസ്ക് സെറ്റ് ലിയു ലെയ്ലാൻഡ് അവസ്ഥ പാലിക്കുന്നില്ലെങ്കിലും അത് യഥാർത്ഥത്തിൽ ഷെഡ്യൂൾ ചെയ്യാൻ സാധ്യതയുണ്ട് 1989 ൽ നൽകിയ ലിയു ലെഹോസ്കി അവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട് അവർ നൽകിയ പ്രധാന ഫലം ടാസ്ക് സെറ്റ കളിലെ എല്ലാ ടാസ്ക്കുകളും നമ്മൾ നോക്കുന്നു ഒപ്പം ടാസ്ക്കുകൾക്കിടയിൽ 0 ഫേസിങ് നമ്മൾ അനുമാനിക്കുന്നു അതായത് എല്ലാ ടാസ്കുകളും ആരംഭിക്കുന്നത് 0 ടൈമിൽ ആണ് അതായത് 0 ഫേസിങ് അവയ്ക്ക് വ്യത്യസ്ത ഫേസിങ് ഉണ്ടെകിലും നമ്മൾ ഫേസിങ് നീക്കംചെയ്യുകയും അവയെ 0 ഫേസിങ് ആയി കണക്കാക്കുകയും ചെയ്യുന്നു 0 ഫേസിങ്ങിൽ എല്ലാ ടാസ്കുകളും അവയുടെ ആദ്യ ഡെഡ്ലൈൻ പാലിക്കുമോയെന്ന് നമ്മൾ പരിശോധിക്കുന്നു അവ ആദ്യ ഡെഡ്ലൈൻ പാലിക്കുകയാണെങ്കിൽ ടാസ്ക് സെറ്റുകൾ ഷെഡ്യൂൾ ചെയ്യാനാകും പ്രസ്താവിച്ച ഫലം പറഞ്ഞപോലെ തന്നിരിക്കുന്ന ടാസ്ക് സെറ്റിലെ എല്ലാ ടാസ്കുകളും ടൈം 0യിൽ തയാറാകുന്നു എന്നു നമ്മൾ പരിഗണിക്കുന്നു അവർ അവരുടെ ആദ്യ ഡെഡ്ലൈൻ പാലിക്കുന്നുണ്ടോയെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഓരോ ടാസ്കുകളും അതിന്റെ ആദ്യ ഡെഡ്ലൈൻ പാലിക്കുന്നുണ്ടെങ്കിൽ ടാസ്ക് സെറ്റുകൾ ഷെഡ്യൂൾ ചെയ്യാനാകുമെന്ന് നമുക്ക് സുരക്ഷിതമായി പറയാൻ കഴിയും എന്നാൽ 0 ഫേസിങ് പ്രാധാന്യത്തെക്കുറിച്ചും ആദ്യത്തെ ഡെഡ്ലൈൻ വരെ മാത്രം പരിശോധിക്കുന്നതിനെക്കുറിച്ചും ചോദ്യം ഉയരുന്നു എല്ലാ ടാസ്കുകളും ആദ്യഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഷെഡ്യൂളബിലിറ്റിയുടെ ഏറ്റവും വേർസ്റ് കേസ് ഉണ്ടാകുന്നതെന്നും എല്ലാ ടാസ്കുകളും ഘട്ടം ഘട്ടമായി എത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രിയോറിറ്റി ടാസ്ക് മറ്റ് എല്ലാ ഉയർന്ന മുൻഗണനാ ടാസ്കുകൾ വരെ വൈകും എന്നും ലിയു ലെഹോസ്കി കണ്ടെത്തി എന്നതാണ് ചോദ്യത്തിനുള്ള ഉത്തരം അതിനാൽ ചില ടാസ്കുകൾ അവയുടെ ഡെഡ്ലൈൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 0 ഫേസിങ് എന്ന അവസ്ഥയാണിത് 0 ഫേസിങ് പോലും ടാസ്ക് സെറ്റുകൾക്ക് അതത് ഡെഡ്ലൈൻ പാലിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രിയോറിറ്റി ഉള്ള ടാസ്ക്കുകൾക്ക് പോലും അവരുടെ ഡെഡ്ലൈൻ പാലിക്കാൻ കഴിയും ഇപ്പോൾ ലിയു ലെഹോസ്കി നൽകിയ ഫലം ടാസ്കുകൾക്കായി 0 ഫേസിങ് പരിഗണിച്ച് എല്ലാ ടാസ്കുകളും അവയുടെ ആദ്യ ഡെഡ്ലൈനും പാലിക്കുന്നുണ്ടോയെന്ന് പരിശോധിച്ചാണ് തുടർന്ന് അവരുടെ എല്ലാ ഡെഡ്ലൈനുകളും അവർ പാലിക്കുമെന്ന് നമുക്ക് സുരക്ഷിതമായി പറയാൻ കഴിയും ടാസ്കുകൾ ടൈം 0ഇൽ എത്തുമ്പോൾ ഉയരുന്ന ചോദ്യം ഏറ്റവും ലളിതവും പുതിയതും ആയ നിലപാടിനെ കുറിച്ചാണ് അതു ശെരിക്കും ടാസ്കുകൾ പ്ലോട്ട് ചെയുന്ന ഷ്ഡ്യൂൽ ആണ് ടാസ്കുകൾക്കായി 0 ഫേസിങ് നമ്മൾ പരിഗണിക്കുന്നു കൂടാതെ ഓരോന്നിനും ആദ്യത്തെ ഡെഡ്ലൈൻ വരെ നമ്മൾ ഷെഡ്യൂൾ ഡ്രോപ്പ് ചെയുകയും ഓരോന്നും നിരീക്ഷിക്കുകയും ചെയ്യുന്നു ടാസ്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നതാണ് തുടർന്ന് ടാസ്ക്കുകൾ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ നിഗമനം ചെയ്യുന്നു വ്യത്യസ്ത പീരിയഡ്ഉകൾ ഉള്ള ധാരാളം ടാസ്കുകൾ നമുക്ക് ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ വരയ്ക്കുന്നത് ബുദ്ധിമുട്ടുള്ളതും പിശകുകൾക്ക് സാധ്യതയുള്ളതും മികച്ച സമീപനമായിരിക്കില്ല കൂടാതെ നമ്മൾ ഒരു വാല്യൂ സബ്സ്ടിട്യൂറ്റ് ചെയുന്ന ഒരു ഗണിതശാസ്ത്ര എക്സ്പ്രഷനുണ്ട് അത് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമുക്ക് ഫലങ്ങൾ നിന്നും ലഭിക്കും നമ്മൾ ലിയു ലെഹോസ്കി മൂലമുള്ള ഈ കംപ്ലീഷൻ ടൈം സിദ്ധാന്തത്തിലെ അടിസ്ഥാന അനുമാനം ചർച്ച ചെയ്തിരുന്നു ഒരു ടാസ്ക് വരുമ്പോൾ ഏറ്റവും വേർസ്റ് കേസ് ഫേസിങ് സംഭവിക്കുന്നത് ഉയർന്ന പ്രിയോറിറ്റിയുള്ളതാണെന്നാണ് T1 T2 എന്നിവ 2 ടാസ്കുകളാണെന്നും T1 ന്റെ പീരിഡ് 30 ആണെന്നും T2 ന്റെ പിരീഡ് 120 ആണെന്നും അവ 0 ഫേസിങ് എത്തുമെന്ന് നമുക്ക് ഊഹിക്കാം T2 എക്സിക്യൂഷൻ പൂർത്തിയാക്കുന്നതിന് നമ്മൾ ഇവിടെ ഷെഡ്യൂൾ വരയ്ക്കുകയും T2 പൂർത്തിയാക്കാൻ 90 യൂണിറ്റ് സമയം ആവശ്യമാണ് എന്നും നമ്മൾ കണ്ടു കാരണം 0 ടൈമിൽ T1 തയ്യാറാകുന്നു 30ഇലും 60ഇലും ഇത് 10 യൂണിറ്റ് സമയത്തേക്ക് പ്രവർത്തിക്കും ബാക്കിയുള്ള സമയം T2 പ്രവർത്തിപ്പിക്കാൻ കഴിയും അത് 90 ൽ പൂർത്തിയാകുമെന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇപ്പോൾ ഒരു ഫേസിങ് ഉണ്ടെന്ന് കരുതുക T1 20 ന് ശേഷവും T2 0 ന് എത്തുന്നു വീണ്ടും പ്ലോട്ടിംഗിൽ T1 ന്റെ ഫേസിങ് 20 ആയതിനാൽ T1 20 ൽ എത്തി T2 നെ ഡിസ്പ്ലെസ് ചെയുന്നു എന്നു നമ്മൾ കണ്ടു T2 0 മുതൽ 20 വരെ പ്രവർത്തികുനു പിന്നെ ഡിസ്പ്ലെസ് ആകുന്നു അങ്ങനെ T2 80ഇൽ കംപ്ലീറ്റ് ആകുമെന്ന് നമ്മൾ കണ്ടു ഈ ഉദാഹരണം സൂചിപ്പിക്കുന്നത് ഒരു ടാസ്ക് ഘട്ടം ഘട്ടമായി എത്തുമ്പോൾ അത് സംഭവിക്കുന്നത് ഏറ്റവും ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക്ണെന്നും അതോടൊപ്പം ലിയുവും ലെഹോസ്കൈറ്റോയും തിയറം നൽകാൻ പ്രേരിപ്പിച്ചത് ഇതാകാം ഓരോ ടാസ്കും അതിന്റെ ആദ്യ ഡെഡ്ലൈൻ പാലിക്കുമോയെന്ന് പരിശോധിക്കേണ്ടതുണ്ട് എല്ലാ ജോലികളും ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുന്നു ലിയു ആൻഡ് ലഹോക്സ്ക്യ് യുടെ ക്രൈറ്റീരിയൻ ഗണിതപരമായി ടെസ്റ്റ് ചെയാൻ നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമറ്റിക്കൽ എക്സ്പ്രഷ്ൻ ആണ് ei ∑j1 i 1 ⌈pipj ⌉∗ejpiei∑j1 i 1⌈pipj⌉∗ejpi ഈ എക്സ്പ്രെഷ്ൻന്നു പിന്നിലെ ഐഡിയ ei പറയുന്നതു ടാസ്ക് പൂർത്തിയാകാൻ എടുക്കുന്ന സമയം ആണ് പക്ഷെ ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കുകൾ ഉയർന്ന പ്രിയോറിറ്റി ടാസ്കുകളാണ് 1 മുതൽ i 1 വരെയുള്ള ടാസ്ക്സ് അതോടൊപ്പം ei പീരീഡ് ആകുന്നതിനു മുൻപ് നമുക്ക് അറിയേണ്ടത് എത്ര തവണ അതു സംഭവിച്ചു എന്നതാണ് എത്ര തവണ അതു സംഭവിച്ചെന്നു തരുന്നതു ⌈pipj⌉ ആണ് അതോടൊപ്പം എത്ര തവണ ഉയർന്ന പ്രിയോറിറ്റി ei പീരീഡ് മുൻപായി വന്നുവെന്നും നമുക്ക് കുറച്ചു ഉദാഹരണം വെച്ചു പരിശോധിക്കാം ഇതു ⌈pipj⌉ ആണ് ഉദാഹരണത്തിന് pj 5ഉം pi 3ഉം ആണെന് കരുതുക Pi രണ്ടു തവണ സംഭവിക്കാം ഒരെണ്ണം 0ഇലും മറ്റേതു 3ഇലും pjക് മുൻപും അതു 5ഇലും ആണ് അതോടൊപ്പം ഓരോ തവണയും അതു ej സമയം എടുക്കുന്നു അതുകൊണ്ട് ei ∑j1 i 1⌈pipj⌉∗ej പരിശോധിക്കണം അതു pi നെകാളും ചെറുത് ആണോ അതോ തുല്യം ആണോയെന്ന് നോക്കണം പിന്നെ അതാണ് നമുക്ക് ടാസ്കിന്റെ ഷ്ഡ്യൂളബിളിലിറ്റി നൽകുന്നത് ഇപ്പോൾ എല്ലാ ടാസ്കിനും ഈ എക്സ്പ്രഷ്ൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നു നമ്മൾ പരിശോദിക്കുന്നു നമ്മൾ ഇവിടെ നിർത്തും അടുത്ത പ്രഭാഷണത്തിൽ ലിയു ലെഹോസ്കി കംപ്ലീഷൻ ടൈം സിദ്ധാന്തത്തെക്കുറിച്ചുള്ള കുറച്ച് ഉദാഹരണങ്ങളും പ്രയോഗഘങ്ലും നമ്മൾ നോക്കും തുടർന്ന് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകും